ആർക്കാണ് പേറ്റന്റ്സിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ കണ്ടുപിടിത്തം ഉണ്ടാക്കുന്ന ഇൻവെൻന്റർക്കാണ് പേറ്റന്റ്സിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ആക്ട് ഉപയോഗിക്കുന്ന വാക്ക് ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്റർ ഓഫ് ദ ഇൻവെൻഷൻ എന്നാണ് ഇതൊരു വ്യക്തി ആകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളാകാം അതുമല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒരുമിച്ചുകൂടി ഒരു ടീം ആയതായിരിക്കാം അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്റർ പല ആളുകൾ ചേർന്ന് ഒരു ടീം ആയിരിക്കാം അവർ ഒരുപക്ഷേ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരും ആയിരിക്കാം അവരുടെ പേരുകൾ പേറ്റന്റ് അപേക്ഷയിൽ പൂരിപ്പിക്കുമ്പോൾ അവരെ എല്ലാവരെയും ഇൻവെൻന്റേഴ്സ് എന്നാണ് കാണിക്കുക ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്റർക്ക് പേറ്റന്റ് അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്റർ നിയോഗിക്കുന്ന വ്യക്തിക്ക് അത് ചെയ്യാം അതായത് ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്റർ ആയിരിക്കും ഉൽപ്പന്നം കണ്ടുപിടിക്കുന്നത് എന്നാൽ അത് വേറെ ഒരാളുടെ പേരിലേക്ക് അദ്ദേഹത്തിന് അത് കൈമാറുവാനും സാധിക്കും നിയുക്തനായ വ്യക്തി എന്നതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം കണ്ടുപിടുത്തത്തെ എടുത്ത് പേറ്റന്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുകയും അതിൻറെ അനന്തര നടപടിക്രമങ്ങളുമായി മുന്നോട്ടുപോകുകയും ചെയ്യുന്ന ആളാണ് സാധാരണയായി ഒരു ഗവേഷണ സ്ഥാപനത്തിലോ കമ്പനിയിലോ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ കണ്ടുപിടുത്തത്തെ സ്വന്തം എന്ന് അവകാശപ്പെടാറില്ല ജോലിക്ക് ചേരുമ്പോഴുള്ള കരാറനുസരിച്ച് അവർ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിത്തങ്ങൾ അവരെ ജോലിക്ക് നിയോഗിച്ച ആ സ്ഥാപനം ആയിരിക്കും സ്വന്തമാക്കുന്നത് അപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനാണ് ഒരു കണ്ടുപിടുത്തം നടത്തുന്നത് എങ്കിൽ ഇൻവെൻന്ററുടെ പേരായിട്ട് അദ്ദേഹത്തിൻറെ പേര് വരും എന്നു വരികിലും അപേക്ഷ സമർപ്പിക്കുന്നത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനമോ കമ്പനിയോ ആയിരിക്കും ഇപ്പോൾ ഇവിടെ രണ്ടു തരത്തിലുള്ള ഉടമസ്ഥത നമുക്ക് കാണാം കണ്ടുപിടുത്തം നടത്തിയ ജീവനക്കാരൻ അദ്ദേഹം ഇൻവെൻററാണ് അപേക്ഷകൻ വേറൊരാൾ ആയിരിക്കും അത് ആ പേറ്റന്റിൻറെ ഉടമസ്ഥൻ ആയിരിക്കും അദ്ദേഹം അപേക്ഷ സമർപ്പിക്കുകയും പേറ്റന്റ് അനുവദിച്ചു കിട്ടുന്നതുവരെയുള്ള എല്ലാ ചെലവുകളും വഹിക്കുകയും തുടർന്ന് പേറ്റന്റ് സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നു മറ്റൊന്ന് ഇൻവെൻന്റർ തന്നെ അപേക്ഷിക്കുന്ന ആളും ആകുന്നതാണ് ഇവിടെ നിയോഗിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഇല്ല കാരണം ഇൻവെൻന്റർ തന്നെയാണ് അപേക്ഷകൻ നേരെമറിച്ച് ഇൻവെൻന്റർ അല്ല അപേക്ഷകൻ എന്നുണ്ടെങ്കിൽ അവിടെ നിയോഗിച്ച് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് നിയോഗിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നിയമപരമായി കണ്ടുപിടുത്തത്തിൻറെ ഉടമസ്ഥത വേറൊരാൾക്ക് കൈമാറുന്നതാണ് കണ്ടുപിടുത്തത്തിൻറെ ഉടമസ്ഥത വേറൊരു അസ്തിത്വത്തിനു അല്ലെങ്കിൽ വ്യക്തിത്വത്തിനു കൈമാറുന്നതാണ് ഗവേഷണ സ്ഥാപനങ്ങളിലും മറ്റും ജോലിചെയ്യുന്ന ജീവനക്കാർ അവർ ജോലിക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് സ്ഥാപന ഉടമസ്ഥനുമായി നടത്തുന്ന കരാർപ്രകാരം അവിടെ ജോലിചെയ്യുന്ന കാലയളവിൽ അദ്ദേഹം ഉൾപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഫലമായി എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൻറെ ഉടമസ്ഥത സ്ഥാപനത്തിന് ആയിരിക്കുമെന്ന് ഒരു കരാറിൽ ഒപ്പു വയ്ക്കാറുണ്ട് ഇങ്ങനെ നടത്തപ്പെടുന്ന അസൈൻമെൻറുകൾ ഒരുപക്ഷേ ജോലിയുടെ കരാറിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ പ്രത്യേകത ഡോക്യുമെൻറോ ആയിരിക്കാം ഇപ്രകാരമുള്ള കരാറുകളോ ഡോക്യുമെൻറുകളോ ആയിരിക്കും ഒരു അപേക്ഷകൻറെ അവകാശത്തെ തെളിയിക്കുന്നതിനുള്ള ഉപാധി ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻവെൻന്റർ ആണെങ്കിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള തെളിവുകളുടെ ആവശ്യമില്ല കാരണം ഇൻവെൻന്റർ തന്നെയാണ് കണ്ടുപിടിത്തവുമായി വന്നിരിക്കുന്നത് മറിച്ച് നിങ്ങൾ ഒരു ഇൻവെൻന്ററല്ലെങ്കിൽ നിങ്ങൾ അതിൻറെ അവകാശത്തിന്മേൽ ഉള്ള തെളിവ് കൊണ്ട് വരേണ്ടിയിരിക്കുന്നു ഈ അവകാശത്തിനുള്ള തെളിവ് എന്ന് പറയുന്നത് ഇൻവെൻന്റർ അസൈനിക്ക് കൊടുത്ത അസൈൻമെൻറ് ഡീഡായിരിക്കാം അപ്പോൾ ഒരു അപേക്ഷകൻ ട്രൂ ആൻഡ് ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്റർ ആകാം അല്ലെങ്കിൽ അതൊരു നിയുക്തനായ വ്യക്തിയാകാം ഒരു അസൈനീ അതുമല്ലെങ്കിൽ ട്രൂ ആൻഡ് ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്ററുടേയോ അസൈനീയുടേയോ നിയമപരമായ പ്രതിനിധി ആയിരിക്കാം അപ്പോൾ അപേക്ഷിക്കാൻ അർഹതയുള്ളത് ഒന്നാമതായി ട്രൂ ആൻഡ് ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്റർക്കാണ് ട്രൂ ആൻഡ് ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്ററല്ല അപേക്ഷകൻ എന്നുണ്ടെങ്കിൽ ആ ഇൻവെൻഷൻ ആർക്കാണോ അസൈൻ ചെയ്തു കൊടുത്തിരിക്കുന്നത് അയളായിരിക്കും അപേക്ഷകൻ ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് മരിച്ചുപോയ ആളുടെ നിയമപരമായ പ്രതിനിധി ട്രൂ ആൻഡ് ആൻഡ് ഫസ്റ്റ് ഇൻവെൻന്ററോ അല്ലെങ്കിൽ അസൈനീയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നിയമപരമായ പ്രതിനിധി ഈ പറഞ്ഞ മൂന്നു കൂട്ടർക്കും മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുള്ളൂ എന്ത് ബലത്തിലാണ് ഒരാൾ അപേക്ഷ സമർപ്പിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാനും അതിൻറെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുവാനും നമുക്കൊരു വിദഗ്ധൻറെ ആവശ്യമുണ്ട് അയാളെ നമ്മൾ പേറ്റന്റ് ഏജൻറ് എന്ന് വിളിക്കുന്നു ഈ വിദഗ്ധരായ ആളുകൾ സയൻസിലും സാങ്കേതികവിദ്യയിലും ബിരുദം ഉള്ളവരും കേന്ദ്ര സർക്കാറുകൾ നടത്തുന്ന പേറ്റന്റ് ഏജൻറ് പരീക്ഷ വിജയിച്ചിട്ടുള്ളവരുമായിരിക്കും പേറ്റന്റ് ഏജൻറ് പരീക്ഷ പേറ്റന്റ് നിയമത്തിലുള്ള വൈദഗ്ധ്യം പരീക്ഷിക്കുന്നു പരീക്ഷ പാസാകുന്നവർക്ക് അപേക്ഷ എഴുതാനും അത് പേറ്റന്റ് ഓഫീസിൽ സമർപ്പിക്കുവാനും സാധിക്കും അതുകൊണ്ട് അപേക്ഷ എഴുതാനും പേറ്റന്റ് ഓഫീസിൽ സമർപ്പിക്കാനും അപേക്ഷകനെ കുറിച്ചും അപേക്ഷയെ കുറിച്ചും അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും നിങ്ങളൊരു പേറ്റന്റ് ഏജൻറ് അതും രജിസ്ട്രേഡ് പേറ്റന്റ് ഏജൻറ് ആയിരിക്കുക ആവശ്യമാണ് പേറ്റന്റ് ഓഫീസുകൾ സാധാരണയായി പേറ്റന്റ് ഏജൻറ് ആയി പരീക്ഷ പാസായിട്ടുള്ളവരും അത് പുതുക്കി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് സൂക്ഷിക്കാറുണ്ട് ആ ലിസ്റ്റ് സൂക്ഷിക്കുന്നത് പേറ്റന്റ് ഓഫീസുകളാണ് ഒരു ഇൻവെൻന്റർക്ക് നേരിട്ട് പേറ്റന്റ് ഓഫീസുമായി ബന്ധപ്പെടുവാൻ സാധിക്കുകയില്ല അഭികാമ്യമായത് പേറ്റന്റ് ഏജൻറ് വഴി സമീപിക്കുക എന്നതാണ് ഒരു പേറ്റന്റ് ഏജൻറിനെ ഈ ദൌത്യം ഏൽപ്പിക്കണം എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ അധികാരപ്പെടുത്തണം നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ അധികാരപ്പെടുത്തുവാൻ ഒരു പ്രത്യേക ഫോം ഉണ്ട് ഒരു കോടതിയിൽ വക്കാലത്ത് ഫയൽ ചെയ്യുവാൻ എങ്ങനെയാണ് നിങ്ങൾ ഒരു വക്കീലിനെ നിയമിക്കുന്നത് അതേപോലെ തന്നെയാണ് പേറ്റന്റ് ഏജൻറിനെ നിയമിക്കുന്നതും ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് അയാൾക്ക് പവർ ഓഫ് അറ്റോണി നൽകുകയോ അല്ലെങ്കിൽ അതിനായി ഫോം 26 എന്ന ഒരു സംവിധാനം ഉണ്ട് ആ ഫോം പൂരിപ്പിച്ചു കൊണ്ട് നിങ്ങൾക്ക് പേറ്റന്റ് ഏജൻറിനെ നിയമിക്കാം പേറ്റന്റ് ഏജൻറ് ആയിരിക്കും പേറ്റന്റ് ഓഫീസിൻറെയും ഇൻവെൻന്ററുടേയും ഇടയിലുള്ള സമ്പർക്ക മാധ്യമം ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു സാധ്യത കൂടിയുണ്ട് അതായത് ആരാണ് ഈ കണ്ടുപിടുത്തം സ്വന്തമാക്കിയിരിക്കുന്നത് അത് പരിഗണിക്കാതെ തന്നെ ഇൻവെൻന്ററെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഈയൊരു സാധ്യത ഒരു ഇൻവെൻന്ററുടെ കപ്പാസിറ്റിയും ഒരു അപേക്ഷകൻറെ കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തുന്നു ഒരു ഇൻവെൻന്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കപ്പെടാനുള്ള അർഹതയുണ്ട് അവകാശമുണ്ട് നിങ്ങൾ ഒരു ഇൻവെൻന്റർ എന്ന നിലയിൽ തന്നെ സൂചിപ്പിക്കപ്പെടണം പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ കണ്ടുപിടുത്തവുമായി വരുന്നു പക്ഷേ കണ്ടുപിടിത്തം എംപ്ലോയർക്ക് അസൈൻ ചെയ്തു കൊടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും ജോലി നൽകിയ വ്യക്തി അതായത് എംപ്ലോയർ കണ്ടുപിടിച്ചത്തത്തിൻറെ പേറ്റന്റിനുള്ള അപേക്ഷകൻ ആയി മാറുന്നു അദ്ദേഹത്തിനാണ് പേറ്റന്റ് അനുവദിച്ചു നൽകുന്നത് ആ കണ്ടുപിടിത്തത്തിൽ നിന്നുള്ള എല്ലാ വ്യാവസായിക ലാഭങ്ങളും ലഭിക്കുന്നത് എംപ്ലോയർക്കാണ് അതിൽ നിന്ന് ഒരു ഭാഗവും ഇൻവെൻന്ററായ ജീവനക്കാരന് ലഭിക്കുന്നില്ല കാരണം അദ്ദേഹം താൻ ചെയ്ത ജോലിക്ക് ശമ്പളം വാങ്ങി കഴിഞ്ഞു കരാർപ്രകാരം ചെയ്ത ജോലിക്കുള്ള അതായത് അദ്ദേഹം നടത്തിയ കണ്ടുപിടിത്തത്തിനുള്ള ശമ്പളം കിട്ടി കഴിഞ്ഞു ഈ കണ്ടുപിടിത്തത്തിൽ നിന്നും എംപ്ലോയർ ആയ വ്യക്തി അനുഭവിക്കുന്ന പ്രതിഫലം എത്ര തന്നെ ആയാലും അത് മുഴുവൻ എംപ്ലോയർ മാത്രമായിരിക്കും അനുഭവിക്കുക എന്നുവരികിലും എംപ്ലോയർ ഈ കണ്ടുപിടിത്തം നടത്തിയത് തൻറെ ജീവനക്കാരനാണ് എന്ന് സമ്മതിക്കേണ്ടിവരും അതുകൊണ്ട് കണ്ടുപിടുത്തം നടത്തിയ വ്യക്തി താനൊരു ഇൻവെൻന്ററാണ് എന്ന് സൂചിപ്പിക്കപ്പെടുക അദ്ദേഹത്തിൻറെ അവകാശമാണ് ഈ അവകാശത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നാൽ തൻറെ പേരിലണ് കണ്ടുപിടിത്തം അറിയപ്പെടുന്നത് എന്നതിൻറെ പേരിൽ മാത്രം കണ്ടുപിടിത്തത്തിൻറെ ഉടമസ്ഥൻ താനാണ് എന്ന് അവകാശപ്പെടാൻ അദ്ദേഹത്തിനും സാധിക്കുകയില്ല ഇൻവെൻന്റർ എവിടെയൊക്കെ തൻറെ കണ്ടുപിടിത്തം അസൈൻ ചെയ്തുകൊടുക്കുന്നുവോ അവിടെയെല്ലാം അദ്ദേഹം ആണ് ഇൻവെൻന്റർ എന്ന് എഴുതപ്പെടാൻ ഉള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് ഇത് ഒരു എഴുത്തുകാരൻറെ ധാർമികമായ അവകാശത്തിന് തുല്യമാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ ഒരുപക്ഷേ ആ പുസ്തകം അസൈൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിൻറെ കോപ്പി റൈറ്റ് ഒരു പബ്ലിഷർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ ആ പബ്ലിഷർ ആണ് ആ പുസ്തകത്തിൻറെ ഉടമസ്ഥൻ പബ്ലിഷർക്ക് ആ പുസ്തകത്തിൻറെ അനേകം കോപ്പികൾ ഉണ്ടാക്കാം പബ്ലിഷർ ആയിരിക്കും ആ പുസ്തകത്തിൻറെ കോപ്പിറൈറ്റ് ഉടമസ്ഥൻ എന്നാൽ ഉടമസ്ഥത നോക്കാതെ തന്നെ ഗ്രന്ഥകാരന് ആ പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ സൂചിപ്പിക്കപ്പെടാൻ അവകാശമുണ്ട് ഇതാണ് ഗ്രന്ഥകർത്താവിൻറെ ധാർമിക അവകാശം ഇതേ പോലെ തന്നെ കണ്ടുപിടിത്തങ്ങളുടെ കാര്യത്തിലും കണ്ടുപിടുത്തം നടത്തിയ ആൾക്ക് അയാളുടെ പേര് ഇൻവെൻന്ററുടെ സ്ഥാനത്ത് രേഖപ്പെടുത്താം